ഹായ് എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എന്റെ കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു എൽ മൂക്ക് ഫോർമാറ്റിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഐ ടി കാൺപൂരാണ് നമ്മൾ ആഴ്ച 5 മൊഡ്യൂൾ നമ്പർ 4 പ്രഭാഷണ നമ്പർ 28 എന്നിവയിലാണ് ഈ ആഴ്ച സാങ്കേതികവിദ്യയിലും അത് ആശയവിനിമയത്തെ പ്രത്യേകിച്ച് മനുഷ്യ ആശയവിനിമയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ മൊബൈലിനെക്കുറിച്ചും അത് നമ്മെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി തുടർന്ന് പതുക്കെ ഞാൻ ഇമെയിലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇമെയിലുകളെ നയിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതിനാൽ ഇമെയിലുകൾ എത്രത്തോളം ദുരുപയോഗം ചെയ്യുന്നു എന്നതിലേക്ക് മാറുകയും ചെയ്തു ഇപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത അതേ കാര്യം തന്നെ തുടരും എന്നാൽ മോശം ഇമെയിലുകൾ എങ്ങനെ അയയ്ക്കരുത് എന്ന അർത്ഥത്തിൽ ഇമെയിലുകൾ എങ്ങനെ അയയ്ക്കരുത് എന്നതിൽ ഇത്തവണ ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ ഇത് വളരെ പ്രധാനമാണ് കാരണം നല്ല ഇമെയിലുകൾ അയയ്ക്കുന്നത് നല്ല ഫലം സൃഷ്ടിക്കാൻ പോകുന്നു എന്നാൽ മോശം ഇമെയിലുകൾ അയയ്ക്കുന്നത് നിങ്ങൾ അവ അയയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് അതിനാൽ യഥാർത്ഥത്തിൽ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം സോഫ്റ്റ് സ്കിൽസ് വ്യക്തിത്വ വികസനം ആസൂത്രണം തയ്യാറെടുപ്പ് സ്ഥിരോത്സാഹം അവതരണക്ഷമത തുടർന്ന് സ്ഥിരോത്സാഹം എന്നിവയുടെ പ്രധാന തത്വങ്ങളായി കഴിവുകളും വ്യക്തിത്വ വികസനവും ആസൂത്രണം തയ്യാറെടുപ്പ് സ്ഥിരോത്സാഹം അവതരണശേഷി തുടർന്ന് സ്ഥിരോത്സാഹം അതിനാൽ ശീലത്തിന്റെ കാര്യത്തിലും നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ല ശീലം വളർത്തിയെടുക്കാനോ മോശം ശീലം മാറ്റാനോ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് കരുതുക അതിനാൽ നിങ്ങൾ ആസൂത്രണം ചെയ്യണം അതിനാൽ നിങ്ങൾ ഒരു അലാറം സജ്ജീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഉണർത്താൻ ആരോടെങ്കിലും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു പുതിയ നടത്ത ഷൂസ് അല്ലെങ്കിൽ ഒരു പുതിയ നടത്ത ഷൂസ് അല്ലെങ്കിൽ ജോഗിംഗ് ഷൂസ് അല്ലെങ്കിൽ ജോഗിംഗിന് ഒരു പുതിയ വേഷം വാങ്ങുന്നത് പോലുള്ള ചില ആകർഷകമായ കാര്യങ്ങൾ അതിനാൽ അത് തയ്യാറെടുപ്പാണ് സ്ഥിരോത്സാഹം സാധാരണയായി ആരെയെങ്കിലും സ്വാധീനിക്കുന്നതിലും ബോധ്യപ്പെടുത്തുന്നതിലും ഒരു പുതിയ ശീലം മാറ്റാൻ നിങ്ങൾ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തണമെന്ന് കരുതുക നിങ്ങളുടെ സ്ഥിരോത്സാഹം ഉപയോഗിക്കണം അവതരണക്ഷമത എന്നത് രൂപഭാവം ഉപയോഗിക്കുന്ന അലങ്കാരം മാത്രമല്ല ഗുണനിലവാരത്തിന്റെ അത് ഉപയോഗിക്കുന്നു മാത്രമല്ല ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം മികച്ചവരാണെന്ന് നിർണ്ണയിക്കുന്ന ആന്തരിക ഉള്ളടക്കവും അവസാനമായി നിങ്ങൾ എന്തോ നിരുത്സാഹപ്പെട്ടതിനാൽ നിർത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതാണ് സ്ഥിരോത്സാഹം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിൽ ചിലർ എനിക്ക് ഇമെയിൽ ചെയ്യുന്നു അയയ്ക്കുന്നു നിങ്ങളുടെ ആശയങ്ങൾ ഫോറത്തിൽ ഇടുന്നു നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തുടരാൻ കഴിയുമെന്ന് പറയുന്നു ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് പറയുക എങ്ങനെ തുടരണമെന്ന് ഞങ്ങൾ ഞങ്ങളോട് പറയുന്നു അതിനാൽ തിരിച്ചുപോവുക വീണ്ടും ആരംഭിക്കുക തുടരുക തുടങ്ങിയ സ്ഥിരോത്സാഹം ഞാൻ പറയും അതിനാൽ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിരാശപ്പെടരുത് പ്രത്യേകിച്ച് നിരാശപ്പെടരുത് ഇപ്പോൾ ഇമെയിൽ എഴുത്ത് ഒരു കലയാണ് ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായി പഠിച്ച സൂക്ഷ്മമായ കലയാണെന്ന് ഞാൻ പറയും പ്രത്യക്ഷമായി പഠിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ അത് പഠിക്കുകയും അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അത് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുകയും ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു ആളുകൾ നിങ്ങളെ സമീപിക്കാൻ തുടങ്ങുന്നു ആളുകൾ നിങ്ങളെ കേൾക്കാൻ തുടങ്ങുന്നു ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഓടുന്നു നിങ്ങൾ വന്ന് അവരുമായി സംസാരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കണമെന്നും ആ വ്യക്തിയെ സ്വാധീനിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു ഇപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ ഞങ്ങൾ ഈ തത്വങ്ങൾ പ്രയോഗിക്കുകയായിരുന്നു ഞങ്ങൾ ഇമെയിലുകൾ നോക്കുകയായിരുന്നു ഇമെയിലുകൾ നോക്കുകയും തുടർന്ന് മേൽപ്പറഞ്ഞ തത്വങ്ങളെല്ലാം ലംഘിക്കുന്ന ചില ഇമെയിൽ ഉദാഹരണങ്ങൾ നോക്കുകയും ചെയ്തു ഇതിൽ ഞാൻ വീണ്ടും അതേ ചിന്താഗതിയിൽ തുടരാൻ പോകുന്നു പക്ഷേ ശരിക്കും മോശം ഇമെയിലുകൾ എങ്ങനെ അയയ്ക്കരുത് എന്ന് ഞാൻ എടുത്തുകാണിക്കാൻ പോകുന്നു ഇനിപ്പറയുന്ന പ്രഭാഷണങ്ങളിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന സിദ്ധാന്ത ഭാഗത്തിന് നിങ്ങളെ തയ്യാറാക്കുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം അവ വിശകലനം ചെയ്യാം ഇത് നോക്കൂ ഇതാണ് ഞാൻ കഴിഞ്ഞ തവണ ഉപസംഹരിച്ച ചിന്ത ഇമെയിലുകൾ അയയ്ക്കാൻ പഠിക്കുന്നതിനുമുമ്പ് ഇമെയിലുകൾ അയയ്ക്കരുതെന്ന് ആദ്യം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ തെറ്റായ പഠനം ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എങ്ങനെ ഇമെയിലുകൾ അയയ്ക്കാതിരിക്കാം ഞാൻ ഒരു പ്രായോഗിക സമീപനമാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളിൽ പലരും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ സിദ്ധാന്തിക്കാൻ പോകുന്നില്ല വിവിധ ആളുകളുമായുള്ള ഇമെയിൽ ഇടപെടലുകളിൽ നിന്ന് എനിക്ക് ലഭിച്ച ഇമെയിൽ സാമ്പിളുകൾ ഇതാ അവരിൽ ഭൂരിഭാഗവും എന്റെ വിദ്യാർത്ഥികൾ അവരിൽ ചിലർ എന്റെ സഹപ്രവർത്തകർ അവരിൽ ചിലർ കച്ചവടക്കാർ അവരിൽ ചിലർ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ ആപ്ലിക്കേഷനുകൾ മുതലായവ ചോദിക്കുന്ന അജ്ഞാതരായ ആളുകൾ അവയിൽ ഭൂരിഭാഗവും മോശം ഇമെയിൽ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഇതുപോലുള്ള ഒരു ലളിതമായ ഒന്ന് നോക്കൂ ഹലോ മാഡം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം അതിനാൽ ഇത് ഇമെയിൽ വഴി അയച്ച ഒരു അവധി അപേക്ഷയാണ് അതിനാൽ അടുത്ത രണ്ട് ദിവസത്തേക്ക് ഞാൻ നിങ്ങളുടെ ക്ലാസുകൾ ബങ്ക് ചെയ്യാൻ പോകുന്നു എനിക്ക് സ്റ്റേഷനു പുറത്തേക്ക് പോകേണ്ടതിനാൽ എനിക്ക് രണ്ട് ദിവസത്തെ അവധി തരൂ അവളെ ഞെട്ടിച്ചു അടുത്തത് നോക്കൂ ഹായ് സർ ഗുരുതരമായ വയറുവേദന അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം പരീക്ഷ എഴുതാൻ വരാൻ കഴിയില്ല എനിക്ക് വീണ്ടും പരീക്ഷ നൽകുക പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാൻ തലവേദന എന്നെ അനുവദിക്കുന്നതിനാൽ എനിക്ക് എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പർ തരൂ ഒരുപാട് സ്നേഹം അടിയന്തിരം മറുവശത്തുള്ള റിസീവർ ടീച്ചർ അവൾ വിടുന്ന ആദ്യ ഷോക്ക് നൽകുമെന്നും രണ്ടാമത്തേത് വീണ്ടും പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ അടിയന്തിരമായി സഹായിക്കുന്ന മികച്ച ചോദ്യപേപ്പർ നൽകുകയോ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും ഇല്ല അത് മോശമായി ഭയാനകമായി ഏറ്റവും മോശമായി മാറിയ ഭാഗം നോക്കൂ അഭിവാദ്യം തന്നെ നോക്കുക നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്ക് ആരെയെങ്കിലും നന്നായി അറിയാമെങ്കിൽ ഹലോ മാഡം വളരെ അനൌപചാരികമാണ് ആരാണ് ഒരു അധ്യാപകൻ ആരാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ആരാണ് ഒരു അഭ്യുദയകാംക്ഷി ആരാണ് നിങ്ങളുടെ കുടുംബ സുഹൃത്ത് തുടർന്ന് ആ വ്യക്തി സുരക്ഷിതനാണെന്ന് അറിയില്ലെങ്കിൽ അത് ബഹുമാനമുള്ള മാഡം അല്ലെങ്കിൽ പ്രിയപ്പെട്ട മാഡം ആണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചില ആളുകൾ പ്രിയപ്പെട്ട മാഡത്തെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ അത്ര അടുത്തതായി ഒന്നുമില്ല പക്ഷേ ഇത് ഇപ്പോഴും ഒരു അധ്യാപികയെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഔപചാരിക മാർഗമായി കണക്കാക്കപ്പെടുന്നു വളരെ അനൌപചാരികവും സംസാരഭാഷയുമായ മറ്റൊരു ഭാഷ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നതുപോലെയാണ് അതിനാൽ ഞാൻ ബങ്ക് ചെയ്യാൻ പോകുന്നു ഞാൻ ഹാജരാകില്ലെന്ന് നിങ്ങൾ പറയേണ്ട ഒരു വാക്കിന്റെ വളരെ തെറ്റായ ഉപയോഗമാണ് അല്ലെങ്കിൽ ഇവയ്ക്കായി നിങ്ങളുടെ ക്ലാസുകൾ എനിക്ക് നഷ്ടമാകും അതിനാൽ അടുത്ത രണ്ട് ദിവസത്തേക്ക് മനപ്പൂർവ്വം കളിയായ ക്ലാസുകൾ ഇല്ലാതാകുന്നത് ബങ്കിംഗ് കാണിക്കുന്നു അതിനാൽ ഈ തീയതി മുതൽ ഈ തീയതി വരെ നിങ്ങൾ എനിക്ക് ഒരു സ്പാഡ് നൽകുക ദയവായി എനിക്ക് രണ്ട് ദിവസം നൽകുക തുടർന്ന് നിങ്ങൾ ഒരു സ്പെല്ലിംഗ് തെറ്റ് ചെയ്താൽ അത് വളരെ മോശം മതിപ്പ് സൃഷ്ടിക്കുന്നു എനിക്ക് വീണ്ടും സ്റ്റേഷന് പുറത്ത് പോകേണ്ടതിനാൽ സ്റ്റേഷനിൽ സ്പെല്ലിംഗ് തെറ്റ് സംഭവിച്ചു ഒരുപക്ഷേ ഇത് ആദ്യം വരണം അതിനാൽ ബഹുമാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ മാഡം അല്ലെങ്കിൽ ബഹുമാന്യയായ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മാഡം കാരണം പറയാൻ എനിക്ക് ഒരു പ്രധാന വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു പ്രധാന പരീക്ഷയ്ക്കോ പുറത്തുപോകേണ്ടതുണ്ട് അതിനാൽ ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളുടെ ക്ലാസുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല അതിനാൽ അവധി നൽകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ നിഗമനം സന്തോഷകരമാണ് അതിനാൽ അത് വീണ്ടും മോശമാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തിന് എഴുതുന്നത് പോലെയാണ് ഈ സന്ദർഭത്തിൽ അത് അനുസരണത്തോടെ നിങ്ങളുടേതായിരിക്കണം തുടർന്ന് പേര് അടുത്തത് നോക്കൂ ആദ്യത്തെ മോശം കാര്യം തുടർച്ചയായി ഇതുപോലെ വലിയ അക്ഷരങ്ങളില്ല ഇത് നിങ്ങൾ അയയ്ക്കുന്ന ഒരു ടെലിഗ്രാമല്ല നിങ്ങൾ വീണ്ടും പരീക്ഷയ്ക്കായി അഭ്യർത്ഥിക്കുന്ന ഒരു കത്ത് അയയ്ക്കുന്നു അതിനാൽ നിങ്ങൾ വളരെ മര്യാദയുള്ളവരായിരിക്കണം നിങ്ങൾ തിടുക്കത്തിലാണെന്ന് കാണിക്കാൻ കഴിയില്ല നിങ്ങൾ അക്ഷമനാണ് ടീച്ചർ വളരെ അടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള വളരെ സംസ്കാരമില്ലാത്ത മാർഗമാണ് ഹൈ സർ അതിനാൽ അത് സ്ത്രീയാണോ പുരുഷനായ അധ്യാപകനാണോ എന്നതിനെ ആശ്രയിച്ച് ബഹുമാനപ്പെട്ട സർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മാഡം പോലെയായിരിക്കണം ഈ ടെലിഗ്രാഫിക് ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ട ഈ അടിയന്തിര വിഷയം ഒഴിവാക്കണം ശരിയായ വാക്യങ്ങൾ ഉപയോഗിക്കുകയും തുടർന്ന് എനിക്ക് വീണ്ടും പരീക്ഷ നൽകുകയും വേണം ഒന്നാമതായി മാന്യമായ മാർക്കർ ഇല്ലാതെ നേരിട്ട് ചോദിക്കുന്ന ഏതൊരു സമ്മാനവും ശരിക്കും മോശമാണ് ദയവായി എനിക്ക് വീണ്ടും പരീക്ഷ നൽകുക നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽപ്പോലും ദയവായി എനിക്ക് ഒരു ലളിതമായ ചോദ്യപേപ്പർ നൽകുക നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പർ ആവശ്യപ്പെടാൻ കഴിയാത്തതിനാൽ ഇത് തികച്ചും മോശവും അപ്രസക്തവുമാണ് ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ കഴിയില്ല കാരണം യാചകർ തിരഞ്ഞെടുക്കുന്നവരായിരിക്കരുത് അതിനാൽ നിങ്ങൾ ഇതിനകം തന്നെ വീണ്ടും പരീക്ഷയ്ക്കായി പരിഗണിക്കാൻ അധ്യാപകനോട് അഭ്യർത്ഥിക്കുന്നു തുടർന്ന് നിങ്ങൾക്കായി ചോദ്യപേപ്പർ എങ്ങനെ സജ്ജീകരിക്കണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് തലവേദനയുണ്ടോ അതോ നിങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് അധ്യാപകന്റെ ആശങ്കയല്ലെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല യഥാർത്ഥ വസ്തുതകൾ നൽകുന്നതിലൂടെ നിങ്ങളുടെ അവതരണശേഷിയും സ്ഥിരോത്സാഹവും കൊണ്ട് നിങ്ങൾ അധ്യാപകനെ ശരിക്കും ആകർഷിക്കണം അങ്ങനെ അധ്യാപകന് നിങ്ങളോട് ആശങ്ക തോന്നും അതിനാൽ അധ്യാപകൻ ഇത് വായിക്കുമ്പോൾ ഇതിനകം തന്നെ അധ്യാപകൻ നിങ്ങളോട് ദേഷ്യപ്പെടുന്നു അവിടെ അധ്യാപകൻ നിങ്ങളുടെ ചില അനുസരണമെങ്കിലും ആത്മാർത്ഥമായി നിങ്ങളുടെ വിശ്വസ്തതയോടെ നിങ്ങളുടെ അനുസരണമെങ്കിലും വിശ്വസ്തതയോടെ അനുസരണത്തോടെ നിങ്ങളുടേതാണ് എന്നാൽ ഇവിടെ ഇത് അവസാനിക്കുന്നത് കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കും തുടർന്ന് നിങ്ങൾ ഇല്ല അതിനാൽ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് ഇല്ലെന്ന് കാണിക്കുന്ന തെറ്റായ സിഗ്നലുകൾ അയയ്ക്കുന്ന ഇത്തരത്തിലുള്ള മെയിലുകൾ ഒഴിവാക്കുക ഒരു വശത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ലെന്ന് നിങ്ങൾ കാണിക്കുന്നു മറുവശത്ത് നിങ്ങളെത്തന്നെ തിരുത്താൻ നിങ്ങളോട് പറയുന്നില്ല എന്നതാണ് സത്യം അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുന്നു അതിനാൽ ശരിയാക്കാനും മെച്ചപ്പെടുത്താനും ശ്രമിക്കുക ഇമെയിലുകൾ അയയ്ക്കാതിരിക്കാനുള്ള ചില ഉദാഹരണങ്ങൾ നോക്കാം ഇതും എനിക്ക് ലഭിച്ച മെയിലുകളിൽ ഒന്നാണ് തുടക്കത്തിൽ ഗുഡ് മോർണിംഗ് സർ മാം ഞാൻ ബന്ദ്വ എസ്പിയിൽ നിന്നുള്ള അപൂർവ അല്ലാദി ആണ് ബാക്കിയുള്ള ഭാഗം നോക്കുക ഞാൻ അത് വായിക്കാൻ പോകുന്നില്ല ആദ്യം പെട്ടെന്ന് നോക്കുക തുടർന്ന് ഒരു പെട്ടെന്നുള്ള നോട്ടം തുടർന്ന് ഞാൻ ഇത് ചർച്ച ചെയ്യാൻ പോകുന്നു അത് നോക്കാൻ ഒന്നോ രണ്ടോ സെക്കൻഡ് എടുക്കും തുടർന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യും ഞാൻ ഇതിനെ നോക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു ഔപചാരിക പ്രഭാതത്തിൽ ആരംഭിക്കാൻ കഴിയില്ല ആദ്യം ആ വ്യക്തിയെ ബഹുമാന്യയായ മാഡം ബഹുമാന്യയായ മാഡം അല്ലെങ്കിൽ ബഹുമാന്യനായ സർ അല്ലെങ്കിൽ പ്രിയ മാഡം എന്നിട്ട് നിങ്ങൾക്ക് സുപ്രഭാതം പറയാം സർ സുപ്രഭാതം മാഡം അതിനാൽ അത് തുടരണം തുടർന്ന് ഇത് വീണ്ടും ഒരു മോശം മെയിൽ ആണ് കാരണം വിദ്യാർത്ഥി പൂർണ്ണമായ വലിയ അക്ഷരങ്ങൾ എവിടെയാണ് ഉപയോഗിച്ചതെന്ന് ഞാൻ കാണിച്ച മുൻ മെയിലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഇത് കൂടുതലും ചെറിയ അക്ഷരങ്ങളാണ് വിരാമചിഹ്നങ്ങളോട് ബഹുമാനമില്ല അത് ശരിക്കും ആവശ്യമുള്ള വലിയ അക്ഷരങ്ങളില്ല ഉദാഹരണത്തിന് ഞാൻ എല്ലായ്പ്പോഴും വലിയ അക്ഷരത്തിലായിരിക്കണം കാരണം ഇത് ഒരു രാജകീയ സർവ്വനാമമായി കണക്കാക്കപ്പെടുന്നു ഇത് ഒരു സർവ്വനാമമാണെങ്കിലും നിങ്ങൾ എനിക്ക് വലിയ അക്ഷരം ഉപയോഗിക്കണം ചെറിയ അക്ഷര രൂപത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അടിസ്ഥാനകാര്യങ്ങൾ അറിയില്ലെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾക്ക് എഴുതുകയാണ് നിങ്ങൾ നിങ്ങളുടെ മെയിൽ രണ്ടുതവണ പരിശോധിക്കണം തുടർന്ന് നിങ്ങൾ ഒരു എം എ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഇന്ന് എം യിലെ പൊതുവായ ഭാഷ അത് ജി ഡിയോ അഭിമുഖമോ ആകട്ടെ അത് ഇംഗ്ലീഷിലാണ് നടത്തുന്നത് കൂടാതെ അവർ നിങ്ങളുടെ ഇംഗ്ലീഷ് കഴിവുകളും നിങ്ങളുടെ സോഫ്റ്റ് കഴിവുകളും ആശയവിനിമയ കഴിവുകളും വിലയിരുത്തുന്നു ഇതാണ് നിങ്ങൾ അയച്ച കത്ത് നിങ്ങൾക്ക് അത് നഷ്ടമായി നിങ്ങളുടെ പേരിന്റെ കാര്യമെന്താണ് വീണ്ടും പേര് നൽകുക വലിയ അക്ഷരങ്ങൾ അവിടെ ഇല്ല അപൂർവ്വ അല്ല എഎ കാണുന്നില്ല അപ്പോൾ ഈ ബന്ധ്വ എംപിയിൽ നിന്ന് ചിലപ്പോൾ എസ് അതിനാൽ അത് എംപിയാണോ എസ്പിയാണോ എന്ന് വളരെ വ്യക്തമല്ല അതിനുശേഷം അത് എംഇ ആണോ എൻഇ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദിയിലാണോ എന്ന് അവൾ വീണ്ടും മൈൻ ബിഇ എന്ന് പറയാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു അത് ഡി ക്യാപിറ്റൽ ഇ ക്യാപിറ്റലിൽ ആയിരിക്കണം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബാച്ചിലർ ബിരുദം സൂചിപ്പിക്കുന്നു അതിനാൽ ഹിന്ദിയിൽ പോലും അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സ്ഥാനാർത്ഥിക്ക് അത് ശരിയായി അറിയിക്കാൻ കഴിയില്ല തുടർന്ന് ഈ ബന്ധ്വ കെ എസ്എഫ്ഐഡിഡിഎസ് എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ഈ കോളേജ് എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് ആ വ്യക്തിക്ക് എങ്ങനെ അറിയാം അതിനാൽ കോളേജ് പറയുക അതിനുശേഷം 2010 ൽ സ്ഥലമില്ല തുടർന്ന് മെയ്ൻ വീണ്ടും 2011 അത് ഇംഗ്ലീഷിൽ എംഇ ആയാലും എംഇ ആയാലും തീർച്ചയായും അത് അവൾക്ക് എംഇ ആണ് എന്നാൽ ആർക്കെങ്കിലും ഹിന്ദി അറിയില്ലെങ്കിൽ ഒരു ഹിന്ദി ഇതര വ്യക്തി ഇത് വായിക്കുന്നുണ്ടെന്ന് കരുതുക ആ വ്യക്തിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ ആ വ്യക്തി ഇത് ഞാൻ എന്ന് വായിക്കും ക്യാറ്റ് എക്സാമിനേഷൻ ദിയാ ടാ ഡിസ്കോ ഫലം ഹാബി എന്നിവയെല്ലാം ജനുവരി മാസത്തിൽ ഇംഗ്ലീഷിലായിരിക്കണം അത് ജനുവരിയിൽ ശേഷം തലസ്ഥാനമായ ജെ യിൽ ആയിരിക്കണം പിന്നെ വർഷം വീണ്ടും മീ അല്ലെങ്കിൽ മീ ആയാ ഹേ പിന്നെ മീ ആർ യു അത് വെറും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വെറും അല്ലെങ്കിൽ വെറും ഇംഗ്ലീഷിലോ ആണ് അതിനാൽ ആർക്കെങ്കിലും ഇംഗ്ലീഷ് മാത്രം അറിയുമ്പോൾ ഈ മെയിൽ ക്യാറ്റ് സ്കോർ കാർഡ് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ മൊത്തം ശതമാനം 48 ഹായ് അല്ലെങ്കിൽ ഹായ് വീണ്ടും ഞാൻ അല്ലെങ്കിൽ ഞാൻ ബാങ്കിംഗ് ഫിനാൻഷ്യൽ എംബിഎ അല്ലെങ്കിൽ എംബി നിങ്ങൾക്ക് എംബിഎ വേണമെങ്കിൽ അത് എം ക്യാപിറ്റൽ ഡോട്ട് ബി ക്യാപിറ്റൽ ഡോട്ട് ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ ഉയർന്ന കഴിവുകൾ ആവശ്യമുള്ള ഒരു കോഴ്സിന്റെ അടിസ്ഥാനകാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എം എയെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിനാൽ ഒരു വ്യക്തി ഉടൻ തന്നെ ചിന്തിക്കുന്നത് അതാണ് തുടർന്ന് സത്യത്തിന് വിപരീതമായി ഇംഗ്ലീഷിൽ നുണ പറയുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നുണ പറയുകയാണെങ്കിൽ നിങ്ങൾ ലിയെ എ അല്ലെങ്കിൽ ലിയെ എന്ന് എഴുതുകയോ ചെയ്യുന്നു ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത് തെറ്റാണ് അപ്പോൾ മുജേ ദയവായി അഡ്മിഷൻ കി പ്രൊസീജർ ബടാ യേ അല്ലെങ്കിൽ ബടാ യേ വിശദാംശങ്ങളും ഫീസ് ഘടനയും മുജേ ഇമെയിൽ കാർ അയച്ചു കി ജി ഇ നന്ദി ഒടുവിൽ ഈ ഒരു അപ്പുർവ അല്ലാ ദി ബന്ദ്വ സ്പിലെ മറ്റൊരു വാചകം ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരു ഇമെയിൽ അയയ്ക്കുന്നതിൻറെ കാര്യത്തിൽ വളരെ വൃത്തികെട്ടതും വൃത്തികെട്ടതുമായ അവതരണക്ഷമതയുടെ അഭാവം വിരാമചിഹ്നങ്ങളുടെ വലിയ അക്ഷരങ്ങളോട് ബഹുമാനമില്ലെന്നും രണ്ട് ഭാഷകൾ കലർത്തുന്നതായും ഞാൻ പറയുന്നു സ്റ്റാൻഡേർഡ് ഒന്ന് ഇംഗ്ലീഷായി അംഗീകരിക്കപ്പെടുമ്പോൾ മറ്റേയാൾക്ക് രണ്ട് ഭാഷകളും അറിയാമെന്ന് കരുതുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മറ്റേയാൾക്ക് അത് അറിയാമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്കായി കത്ത് തയ്യാറാക്കാൻ കഴിയുന്ന ആരോടെങ്കിലും ചോദിക്കുക അത് ആസൂത്രണത്തിന്റെയും തയ്യാറെടുപ്പുകളുടെയും കാര്യത്തിൽ ഒരു നല്ല കത്ത് തയ്യാറാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് അയയ്ക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കും ഇപ്പോൾ നല്ല ഇമെയിലുകൾ അയയ്ക്കുന്നതിലൂടെ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം ഇത് ഒരുപക്ഷേ എനിക്ക് ലഭിച്ച ഏറ്റവും മോശം ഇമെയിലുകളിലൊന്നായിരിക്കാം അതിൽ മിക്കവാറും എല്ലാം തെറ്റാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഈ ഇമെയിൽ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ എനിക്ക് പഠിപ്പിക്കാൻ കഴിയൂ ഇപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാനാകുമെന്ന് നോക്കാം തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ എഴുത്ത് വൈദഗ്ധ്യവും സോഫ്റ്റ് സ്കിൽസും മെച്ചപ്പെടുത്താം യഥാർത്ഥത്തിൽ ഈ വ്യക്തി ഇന്റേൺഷിപ്പ് ആവശ്യപ്പെട്ട് ഒരു ഫാക്കൽറ്റിയിലേക്ക് മാത്രമേ അയയ്ക്കുന്നുള്ളൂ എന്നാൽ ഈ വിദ്യാർത്ഥി ഇപ്പോൾ എത്ര ഇമെയിൽ ഐഡികൾ അയയ്ക്കുന്നുവെന്ന് നോക്കുക നിങ്ങൾ 1000 ആളുകൾക്ക് ഇമെയിലുകൾ അയയ്ക്കുന്നു കുറഞ്ഞത് ഒരു ആളെങ്കിലും അതിനോട് പ്രതികരിക്കും ഇപ്പോൾ നിങ്ങൾ 1000 ആളുകളിലേക്ക് അയയ്ക്കുമ്പോൾ മറ്റെല്ലാവരും പ്രതികരിക്കുമെന്ന് എല്ലാവരും കരുതുന്നു ഒടുവിൽ ആരും ആ വ്യക്തിയോട് പ്രതികരിക്കുന്നില്ല വ്യക്തമായും നിങ്ങൾ ഇന്റേൺഷിപ്പ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മെയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസിൽ ആവശ്യമായ അഞ്ച് രൂപയുടെ കുറവുണ്ടെന്ന് നിങ്ങളുടെ മെയിൽ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ പൂർണ്ണമായും സോഫ്റ്റ് സ്കിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ വിളിച്ച് ഇന്റേൺഷിപ്പിൽ സൂക്ഷിക്കുന്നത് അദ്ദേഹം ഡോവ ഡോവയ്ക്ക് അയച്ച സിസി യഥാർത്ഥത്തിൽ അക്കാദമിക് കാര്യങ്ങളുടെ ഡീനാണ് അദ്ദേഹത്തിന് അത് അയയ്ക്കേണ്ടതില്ല അപ്പോൾ വിച്ച് അല്ലെങ്കിൽ ജെ വൈസ് ചെയർമാൻ ജെ ആണ് അദ്ദേഹത്തിന് അത് അയയ്ക്കേണ്ടതില്ല തുടർന്ന് ഐ കെയിലെ ഡയറക്ടറും തുടർന്ന് ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഫാക്കൽറ്റിയുമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആരെ അയയ്ക്കുന്നത് 10000 പേരിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളും പിന്നെ ചില തൊഴിലാളികളും ഉൾപ്പെടുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു അതിനാൽ ആർക്കാണ് ഇന്റേൺഷിപ്പ് നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം എഴുതിയ വിഷയം നോക്കൂ യഥാർത്ഥത്തിൽ അദ്ദേഹം കുറച്ച് മെയിലുകൾ ഉപയോഗിച്ചു അദ്ദേഹത്തിന് വീണ്ടും ഇമെയിൽ ലഭിച്ചു എന്നിരുന്നാലും അദ്ദേഹം എഴുതുന്ന ആദ്യ മെയിലാണെങ്കിലും അദ്ദേഹം മറുപടി മറുപടി സൂചിപ്പിക്കുന്നു പക്ഷേ ഇത് ഉത്തരമല്ല വേനൽക്കാല സ്പെല്ലിംഗ് തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം നിങ്ങളുടെ സ്ഥാപനത്തിൽ പരിശീലനം എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഹ്രസ്വ രൂപം വീണ്ടും ഔപചാരികമായതിൽ തെറ്റാണ് അനാവശ്യമായ ഡോട്ട്സ് റഫറൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇല്ല ക്യാപിറ്റൽ അക്ഷരങ്ങൾ ഉപയോഗിക്കാതെ ഡോക്ടർ എഴുതിയിട്ടുണ്ട് തുടർന്ന് വീണ്ടും അസിസ്റ്റന്റ് പ്രൊഫസർ ക്യാപിറ്റൽ അക്ഷരങ്ങളില്ല തുടർന്ന് ഡോട്ടുകൾ അനാവശ്യമായി ഉപയോഗിക്കുന്നു തുടർന്ന് നിങ്ങൾ പ്രധാന ബോഡി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചില സത്യ പോൾ സിംഗ് അറിയാമെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ഇവിടെ വിജയ് പോൾ സിംഗ് എന്ന പേരിൽ ആരെയെങ്കിലും പരാമർശിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആരെയെങ്കിലും അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഇവിടെ ആ വ്യക്തിക്ക് എഴുതുന്നത് അടുത്തത് നോക്കൂ വലിയ അക്ഷരങ്ങളിൽ എഴുതുന്നത് അത് വളരെ പ്രധാനമാണെന്ന് സൂചിപ്പിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു പക്ഷേ അത് വളരെ മോശം മതിപ്പ് സൃഷ്ടിക്കുന്നു കാരണം നിങ്ങൾക്ക് അത് വ്യക്തമായി വായിക്കാൻ കഴിയില്ല അതിനാൽ സ്പെല്ലിംഗ് തെറ്റ് വീണ്ടും പിന്തുടരുകയും തുടർന്ന് ഓരോ തവണയും ഫുൾ സ്റ്റോപ്പ് ആയ ഒരു വിരാമചിഹ്നത്തിന് മുമ്പ് അദ്ദേഹം സ്ഥലം നൽകുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ എല്ലാ സ്പെയ്സുകളും വിരാമചിഹ്നത്തിന് ശേഷം വരും അതിനുമുമ്പല്ല ഫുൾ സ്റ്റോപ്പിന് ശേഷം അല്ലെങ്കിൽ കോമാ സ്പേസ് വരണം അതിനാൽ ഇവിടെ ഫുൾ സ്റ്റോപ്പിന് ശേഷം സ്ഥലമില്ല ഇത് വീണ്ടും വിരാമചിഹ്നങ്ങളുടെ തെറ്റായ ഉപയോഗമാണ് അതിനാൽ നിങ്ങളുടെ പ്രതികരണത്തിൽ ഞങ്ങൾ ഉടൻ കാണും അതിനാൽ ഇത് എഴുതാനുള്ള ശരിയായ മാർഗമല്ല അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു തുടർന്ന് നിങ്ങൾ എന്റെ നമ്പറിൽ എനിക്ക് സന്ദേശം അയയ്ക്കണമെന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല അത് വായിക്കുന്ന വ്യക്തിക്ക് അത് അഹങ്കാരമാണോ അതോ മര്യാദയുടെ അഭാവമാണോ എന്ന് തീർച്ചയായും അനുഭവപ്പെടുമെന്ന് ഞാൻ എന്തിന് പ്രതികരിക്കണമെന്ന് തോന്നുന്നു പിന്നെ അവസാനത്തേത് പോലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവസാനത്തെ വാചകം ലവ് ടു സീ യു ലവ് ചുരുക്കത്തിൽ കാണുക ഫേസ്ബുക്കിൽ എവിടെയാണ് അദ്ദേഹം തനിക്ക് അറിയാത്ത വ്യക്തിയോട് ഇൻ്റേൺഷിപ്പ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് തുടർന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ വന്ന് എന്നോടൊപ്പം ചേരുക എന്ന് പറയുന്നു ഞങ്ങൾ ഒരു ചാറ്റിനായി പോകും ഇപ്പോൾ ഇത് എങ്ങനെ ഇന്റേൺഷിപ്പ് നേടാം എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അജ്ഞതയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായും അറിയാൻ കഴിയും വിദ്യാർത്ഥി ശരിക്കും നല്ലവനായിരിക്കാം ബന്ധപ്പെട്ട ഫാക്കൽറ്റികളുമായി വളരെ നല്ല ഇന്റേൺഷിപ്പ് ചെയ്യാൻ കഴിവുള്ള ആത്മാർത്ഥതയുള്ളവർ ഐഐടി കാൺപൂരിലേക്കും സംഭാവന നൽകിയേക്കാം കൂടാതെ ഐഐടി കാൺപൂരിൽ നിന്നും നേട്ടമുണ്ടാക്കാം പക്ഷേ ആ വ്യക്തിക്ക് എങ്ങനെ സ്വയം അവതരിപ്പിക്കണമെന്നില്ല എന്നതിനാൽ ആസൂത്രണ തയ്യാറെടുപ്പുകളൊന്നുമില്ല അതിനാൽ ഒരു ഇമെയിൽ എഴുതുന്നതിൻറെ കാര്യത്തിൽ മാന്യതയുടെ പൂർണ്ണമായ അഭാവം അത് തെറ്റായ സിഗ്നൽ അയയ്ക്കുന്നു ഇതിന് വ്യക്തിയെ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇമെയിലുകൾ ഉപയോഗിക്കാൻ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇമെയിലുകൾ ഫലപ്രദമായി ഉപയോഗിക്കരുത് കാരണം പകലും പകലും ആശയവിനിമയം സ്ഥിരമായി ഇമെയിലുകളാൽ നിറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതിനാൽ കോർപ്പറേറ്റ് ഓഫീസുകളും സാങ്കേതിക സ്ഥാപനങ്ങളും പോലുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് നാല് അഞ്ച് ഇമെയിൽ ഐഡികൾ ഉണ്ട് തുടർന്ന് ഓരോ ദിവസവും ഓരോ മിനിറ്റും തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഇമെയിലുകൾ ഉപയോഗിച്ചാണ് അതിനാൽ രക്ഷപ്പെടൽ യഥാർത്ഥത്തിൽ നിങ്ങളെ ഒഴിവാക്കുകയും സാങ്കേതികവിദ്യയെ ഉൾക്കൊള്ളുന്ന ഈ സാങ്കേതിക കുതിപ്പിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും പുറത്താകുകയും ചെയ്യും എന്നാൽ എന്തും അമിതമായി ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന അറിവോടെ വളരെ പരിമിതമായ ഫലപ്രദമായ രീതിയിൽ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വർദ്ധിപ്പിക്കുന്നതിന് ഇമെയിൽ ഉപയോഗിക്കുക അത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്ന ഒരു കലയായി ഉപയോഗിക്കുക പക്ഷേ മുമ്പത്തേതിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചതുപോലെ നിങ്ങളുടെ ഏറ്റവും മോശം രൂപത്തെ സൂചിപ്പിക്കുന്ന ഒന്നല്ല ഒരു സമാപന ചിന്ത എന്ന നിലയിൽ ഞാൻ വളരെ ഗൌരവമേറിയ ഒരു കാര്യം ചർച്ച ചെയ്തു നമുക്ക് ഒരു ചെറിയ തമാശ നോക്കാം തുടർന്ന് നമുക്ക് ഈ പ്രഭാഷണം പൂർത്തിയാക്കാം ഈ തമാശ നോക്കൂ അത് ഇതുപോലെ പോകുന്നു അതിനാൽ ബോസും ജീവനക്കാരനും വന്നു നിങ്ങളുടെ ഇമെയിലുകൾ കൂടുതൽ തവണ പരിശോധിക്കണമെന്ന് ബോസ് പറയുന്നു മൂന്നാഴ്ച മുമ്പ് ഞാൻ നിങ്ങളെ പിരിച്ചുവിട്ടു അതിനാൽ പല കോർപ്പറേറ്റ് ഓഫീസുകളിലും ആരെയെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ആരെയെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരാളെ പോലും ഇമെയിൽ വഴി അയയ്ക്കാം തുടർന്ന് അവർ ശമ്പള ചെക്ക് അയയ്ക്കുകയും തുടർന്ന് മറ്റൊരു കത്ത് ഇടുകയും സ്കാനിംഗ് കത്ത് അവിടെ പോകുകയും ചെയ്യും തുടർന്ന് അവർ ഓഫീസിൽ വരേണ്ടതില്ല അതിനാൽ നിങ്ങളുടെ ഇമെയിലുകൾ കൂടുതൽ തവണ പരിശോധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ ഈ വ്യക്തി ഇപ്പോൾ ആധുനിക കാലത്ത് ഏകദേശം മൂന്നാഴ്ചയായി ഇത് പരിശോധിച്ചിട്ടില്ല മൂന്നാഴ്ചത്തേക്ക് ഇമെയിൽ പരിശോധിക്കുന്നത് വളരെ അപകടകരമാണ് നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ നഷ്ടപ്പെടും എന്നാൽ അതേ സമയം നിങ്ങൾക്ക് ഉത്കണ്ഠ അനുഭവപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് അമിതമായി ശ്വാസംമുട്ടൽ അനുഭവപ്പെടേണ്ടതില്ല ഇപ്പോൾ അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ ചില ഇമെയിൽ മാനദണ്ഡങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താമെന്നും അതിന്റെ മര്യാദകൾ എങ്ങനെ സ്വീകരിക്കാമെന്നും ചർച്ച ചെയ്യാൻ പോകുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇമെയിലുകൾ ഫലപ്രദമായി അയയ്ക്കാൻ കഴിയും അതിനാൽ ഈ കുറിപ്പോടെ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇത് കാണുന്നത് നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു